ശരി ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഇവിടെ ഞങ്ങൾ വിവിധ ആംപ്ലിഫയറുകളുടെ പ്രവർത്തനം ആപ്ലിക്കേഷനുകൾ മനസിലാക്കുന്നു അവസാന മൊഡ്യൂളുകളിൽ ഞങ്ങൾ സവിശേഷതകളിലൂടെ കടന്നുപോയി ഇൻപുട്ട് ബയസ് കറന്റ് പോലുള്ള ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് പ്രവർത്തന ആംപ്ലിഫയറിനെ എങ്ങനെ ബാധിക്കും ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജുകൾ എന്തൊക്കെയാണ് സ്ലീവ് റേറ്റ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും എങ്ങനെ ചെയ്യാമെന്നും ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ പക്കലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇത് അളക്കുക ഞങ്ങൾക്ക് ഒരു ഡിസി പവർ സപ്ലൈ ഉണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ ജനറേറ്റർ ഒരു ഓസിലോസ്കോപ്പ് ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ ജനറേറ്റർ നിങ്ങളുടെ ഓസിലോസ്കോപ്പും ഒപ്പം ഡിസി വൈദ്യുതി വിതരണം ഞങ്ങൾ ബ്രെഡ്ബോർഡിന്റെ സഹായം സ്വീകരിച്ചു അതിൽ ഞങ്ങൾ സർക്യൂട്ട് മൌണ്ട്ണ്ട് ചെയ്തു ഞങ്ങൾക്ക് കുറച്ച് ഇൻപുട്ട് സിഗ്നലും ഉണ്ട് ഔട്ട് പുട്ടിൽ മാറ്റവും പ്രയോഗിക്കുമ്പോൾ സിഗ്നലുകളിലെ മാറ്റം കണ്ടു വോൾട്ടേജുകളിലെ മാറ്റമായി നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്ന സിഗ്നൽ ശരിയാണ് ഞാൻ എങ്ങനെ കണക്കാക്കാം IB ഒരു പട്ടികയിൽ ചില സൂത്രവാക്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിനാൽ ആ മൊഡ്യൂൾ കാണാത്തവർ ദയവായി പോയി ആ മൊഡ്യൂൾ കാണുക തുടർന്ന് നിങ്ങൾക്ക് ഈ പ്രത്യേകതയിലേക്ക് മടങ്ങാം ഇപ്പോൾ വിപരീത വിപരീത ആംപ്ലിഫയർ എന്താണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കും പിന്നെ ഒരു വിപരീതമല്ലാത്ത ആംപ്ലിഫയർ എന്താണെന്ന് ഞങ്ങൾ നോക്കും അതിനുശേഷം ഒരു വോൾട്ടേജ് ഫോളോവറും ബഫർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു ഒടുവിൽ നമുക്ക് സംഗ്രഹ ആംപ്ലിഫയർ ഉണ്ടാകും അതിനാൽ ഇവയുടെ ഗണമാണ് ഇന്നത്തെ ശ്രേണിയിലെ കാര്യങ്ങൾ ഞങ്ങൾ ഇവ വീണ്ടും 2 അല്ലെങ്കിൽ 3 വ്യത്യസ്ത മൊഡ്യൂളുകളായി വിഭജിക്കും അങ്ങനെ അത് വളരെ ബോറടിപ്പിക്കുന്നില്ല നമ്മൾ വായിക്കുന്ന എന്തെങ്കിലും നോക്കുമ്പോഴാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻപ്രയാസം അവിടെ 15 മുതൽ 20 മിനിറ്റ് വരെ എന്തെങ്കിലും നോക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് എന്നിട്ട്മറ്റൊരു മൊഡ്യൂൾ ആരംഭിക്കുക അത് നിങ്ങളുടെ മനസ്സിനെ പുതിയതും ശരിയായതുമായി നിലനിർത്തും കൂടാതെ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ലബോറട്ടറിയിൽ ജോലിചെയ്യുന്നു അല്ലെങ്കിൽ അര മണിക്കൂർ പഠനത്തിനായി ഒരു മണിക്കൂർ പഠിക്കുമ്പോൾ 5 മിനിറ്റ് ഇടവേള എടുക്കുക അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങളുടെ ഏകാഗ്രത നിലനിർത്താൻ സഹായിക്കും നിങ്ങളുടെ മനസ്സ് ഫോക്കസ് ചെയ്യുക അതിനാൽ ആദ്യത്തെ പരീക്ഷണത്തോടെ നമുക്ക് ആരംഭിക്കാം അതാണ് വിപരീതം ആംപ്ലിഫയർ വിപരീത ആംപ്ലിഫയറായി ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ എങ്ങനെ ഉപയോഗിക്കാം ഇപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ആംപ്ലിഫയറുകൾക്ക് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തിയറി ക്ലാസിൽ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് ശരിയാണ് ഞങ്ങൾ ഇതിനകം കണ്ടതാണ് അതിനാൽ വിപരീത ആംപ്ലിഫയർ എന്താണെന്ന് കൃത്യമായി നമുക്ക് നോക്കാം കാരണം അത് ഇതിനകം തിയറി ക്ലാസിൽ പറഞ്ഞിരുന്നു പരീക്ഷണങ്ങൾ എങ്ങനെ നടത്താമെന്ന് ഞങ്ങൾ കാണും ശരി അതിനാൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ സർക്യൂട്ടുകളുടെ അടിസ്ഥാന ഓപ്പറേഷൻ മനസ്സിലാക്കുന്നു ഇവയെല്ലാം അടിസ്ഥാന ഓപ് ആമ്പുകളാണ് അവ വളരെ സങ്കീർണ്ണമായ ഒപ് ആം സർക്യൂട്ടുകളാണ് അടിസ്ഥാനകാര്യങ്ങളുമായി ഞങ്ങൾ ആരംഭിക്കുന്നു അതിനാൽ ആദ്യം നിങ്ങളുടെ വിപരീതമാണ് തുടർന്ന് ഇത് നിങ്ങളുടെ വിപരീതമല്ലാത്ത ആംപ്ലിഫയറാണ് തുടർന്ന് ഞങ്ങൾക്ക് വോൾട്ടേജ് ഫോളോവറും സമ്മിംഗ് ആംപ്ലിഫയറും ഉണ്ട് അതിനാൽ ആദ്യത്തെ കാര്യംആയ വിപരീത ആംപ്ലിഫയർ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ തിയറി ക്ലാസിൽ ഇതിനകം കണ്ടു വിപരീത ആംപ്ലിഫയർ ശരിയാണ് അതിനാൽ ഞാൻ ഈ സ്ലൈഡ് ചർച്ച ചെയ്തതിനുശേഷം അടുത്ത സ്ലൈഡിലേക്ക് വേഗത്തിൽ നീങ്ങുന്നു അങ്ങനെ ഞങ്ങൾ തിയറി ക്ലാസ് എന്തായിരുന്നുവെന്ന് മനസിലാക്കുക ഞങ്ങൾക്ക് പരീക്ഷണ ക്ലാസുമായി പരസ്പര ബന്ധമുണ്ട് അതിനാൽ നിങ്ങൾ വിപരീത ആംപ്ലിഫയർ കാണുകയാണെങ്കിൽ ഇൻപുട്ട് വിപരീത ടെർമിനലിന് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇൻപുട്ട് ഇൻവെർട്ടിംഗ് ടെർമിനലിന് നൽകിയിട്ടുണ്ട് ശരിയാണ് വിപരീതമല്ലാത്ത ടെർമിനൽ ഗ്രൌണ്ട് ചെയ്യുന്നു വിപരീതമല്ലാത്തത് ഗ്രൌണ്ട് ചെയ്യുന്നു അതിനാൽ R R1 R2 നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് കണക്കാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ സമവാക്യം എന്താണെന്ന് മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരി ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ വിപരീത ടെർമിനലിൽ വോൾട്ടേജ് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക ഘട്ടത്തിൽ I1 V1 R1 കറന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ അത് I2 I1 V1 R1 ആയിരിക്കും കാരണം വ്യത്യാസം 0 ആണ് Vo നിങ്ങൾ സമവാക്യം എങ്ങനെ ചിത്രത്തിലേക്ക് വരുന്നുവെന്ന് മനസിലാക്കുന്നുവെങ്കിൽ ഇത് പരിഹരിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താം Vo 0 V1R1R2 അതിനാൽ നിങ്ങൾ ഇത് അവസാനമായി കണ്ടാൽ നിങ്ങൾക്ക് Vo 0 ന് അർത്ഥമില്ല അതിനാൽ V1 അല്ലെങ്കിൽ R2 R1 V1 ആംപ്ലിഫയർ വിപരീതമാക്കാനുള്ള സൂത്രവാക്യമാണിത് അതിനാൽ ഞങ്ങൾ തിയറി ക്ലാസിൽ കണ്ടു അതിനാൽ ഈ പ്രത്യേക ഫോർമുല നിങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞുവെന്ന് ഞാൻ വിശദമായി പറയുന്നില്ല എന്നാൽ വേഗത്തിൽ ഓർമ്മിക്കാൻ ബാഹ്യ ഘടകങ്ങൾ R1 R2 എന്നിവ ഒരു ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കുന്നു ശരിയാണ് R2 R1 എന്നിവ ഇത് ഒരു ക്ലോസ് ലൂപ്പായി മാറുന്നു പ്രവർത്തന ആംപ്ലിഫയർ ഒരു ഓപ്പൺ ലൂപ്പ് ആംപ്ലിഫയറായി ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ കണ്ടു ഇത് ഒരു അടച്ച ലൂപ്പ് ആംപ്ലിഫയറായി ഉപയോഗിക്കാം അതിനാൽ ഈ R1 R2 റെസിസ്റ്ററുകൾ ഒരു ഫീഡ്ബാക്ക് നേടാൻ സഹായിക്കുന്നു അതിനാലാണ് ഇത് ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിലേക്ക് ഒരു ക്ലോസ് ലൂപ്പ് ഔട്ട്പുട്ട് നൽകുന്നത് ഇൻപുട്ട് ടെർമിനലിലേക്ക് ഔട്ട്പുട്ട് തിരികെ നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ടെർമിനൽ ഇൻപുട്ട് സിഗ്നൽ വിപരീത ഇൻപുട്ട് ടെർമിനലിലേക്ക് പ്രയോഗിക്കുന്നത് ഞങ്ങൾ ഇതിനകം കണ്ടു അല്ലേ അതിനാൽ വിപരീത ആംപ്ലിഫയറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഓർക്കുക ഇൻപുട്ട് പ്രയോഗിക്കുക വിപരീതമല്ലാത്ത ആംപ്ലിഫയറിനെക്കുറിച്ചുള്ള വിപരീത സംസാരം ഇൻവെർട്ടിംഗ് അല്ലാത്ത ടെർമിനലിലേക്ക് ഇൻപുട്ട് പ്രയോഗിക്കുന്നു വിപരീത ടെർമിനലിനായി ഇൻപുട്ട് സിഗ്നൽ പ്രയോഗിച്ചു അനുയോജ്യമായ op amp ഉപയോഗിച്ച് കോൺഫിഗറേഷൻ നോക്കാം ശരി അതിനാൽ വെർച്വൽ ഷോർട്ട് പ്രയോഗിക്കാൻ ആവശ്യമായ വ്യവസ്ഥയും ഞങ്ങൾ കണ്ടു കൃത്യമായി വിർച്വൽ ഗ്രൌണ്ട് അല്ലെങ്കിൽ വെർച്വൽ ഷോർട്ട് തിയറി അതിലൊന്നാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷൻ അനന്തമായ ലൂപ്പ് നേട്ടം ഇവയാണ് വെർച്വൽ ഹ്രസ്വ പ്രയോഗിക്കാൻ ആവശ്യമായ വ്യവസ്ഥ ഞങ്ങൾക്ക് ഇതിനകം അറിയാം ഈ പ്രത്യേക ആംപ്ലിഫയറിന്റെ അടച്ച ലൂപ്പ് നേട്ടം R2 R1 അല്ലാതെ മറ്റൊന്നുമല്ല ശരിയാണ് ഡിഫറൻഷ്യൽ നേട്ടം V2 V1 ആയിരിക്കും എന്താണ് V2 V2 V1 Vo അനന്തമായ ഇൻപുട്ട് ഇംപെഡൻസ് I1 I2 0 ഇൻപുട്ട് ഇംപെഡൻസ് അനന്തമായിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ I1 എന്നത് I2 ന് തുല്യമായിരിക്കും 0 അല്ലാതെ മറ്റൊന്നുമില്ല അനന്തമായ ഇൻപുട്ട് ഇംപെഡൻസ് എന്നാൽ കറൻറ് ഒഴുകാൻ കഴിയില്ല അതിനാലാണ് ഇത് 0 അനുയോജ്യമായ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിച്ച് കോൺഫിഗറേഷൻ വിപരീതമാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ അനുയോജ്യമായ ഓപ് ആമ്പ് അതിനാൽ പ്രായോഗിക ഓപ് ആമ്പ് വീണ്ടും ഇൻപുട്ട് ഇംപെഡൻസ് വളരെ ഉയർന്നതോ അനന്തമോ അല്ല അത് വളരെ ഉയർന്നതായിരിക്കും ശരിയല്ല അതിനാൽ ഞങ്ങൾ ഇൻപുട്ട് വിപരീതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അനുയോജ്യമായ op amp 0 ഔട്ട്പുട്ട് ഇംപെഡൻസ് ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ ശരി ഇതും 0 എന്നാൽ വാസ്തവത്തിൽ എങ്കിൽ ഇത് പ്രായോഗിക ഓപ് ആമ്പാണ് അത് 0 അല്ല ശരി വോൾട്ടേജ് നേട്ടം നെഗറ്റീവ് ആണ് ശരിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങളുടെ R2 R1 V1 ൻറെ നെഗറ്റീവ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നലുകൾ ഘട്ടത്തിന് പുറത്താണ് ഇത് വളരെ പ്രധാനമാണ് ഇത് ഞങ്ങൾ തിയറി ക്ലാസ്സിൽ വീണ്ടും കണ്ടു നമുക്കുള്ളത് വിപരീത ആംപ്ലിഫയറിലേക്ക് ഞങ്ങൾ ഇൻപുട്ട് സിഗ്നൽ പ്രയോഗിക്കുമ്പോൾ ഔട്ട്പുട്ട് ആയിരിക്കും വിപരീത ഘട്ടം അതിനാൽ ഞങ്ങൾ ഒരൊറ്റ പ്രയോഗിക്കുന്നു ശരി വിപരീത ഘട്ടമായഔട്ട്പുട്ട് ഞങ്ങൾ കാണും ഇത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് ശരി അതിനാൽ എഴുതിയ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നലുകൾ ഇതാണ് ഘട്ടത്തിന് പുറത്താണ് അല്ലേ അടുത്തതായി ക്ലോസ് ലൂപ്പ് നേട്ടം പൂർണ്ണമായും നിഷ്ക്രിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ശരിയാണ് Op amp ൽ നിന്ന് സ്വതന്ത്രമായി എന്തുകൊണ്ട് പൂർണ്ണമായും നിഷ്ക്രിയ ഘടകങ്ങളിലേക്ക് ഇത് R2 നെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു ഇത് R1 നെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ ആശ്രയിക്കുന്നില്ല അതിനാൽ ഇത് നിഷ്ക്രിയ ഘടകങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്നു ശരിയല്ലേ അടുത്തത് ക്ലോസ് ലൂപ്പ് ആംപ്ലിഫയർ ട്രേഡ്സ് നേട്ടമാണ് അത് ഉയർന്ന ഓപ്പൺ ലൂപ്പ് നേട്ടമാണ് കൃത്യതയ്ക്കായി എന്നാൽ കൃത്യമായ ക്ലോസ് ലൂപ്പ് നേട്ടത്തിന് പരിമിതമായ നേട്ടം എന്താണ് ഇതിനർത്ഥം നിങ്ങൾ ആംപ്ലിഫയറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ കണ്ട 2 തരം ഫീഡ്ബാക്ക് ഉണ്ട് ശരിയാണ് അതിലൊന്നാണ് നിങ്ങളുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മറ്റൊന്ന് നിങ്ങളുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇപ്പോൾ ഞാൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗിക്കുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണുള്ളത് കണ്ടോ നിങ്ങൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗിക്കുന്നത് തുടരുകയാണെങ്കിൽ ആംപ്ലിഫയർ ശരിക്കും ഒരു ആംപ്ലിഫയർ ആയി പ്രവർത്തിക്കില്ല പക്ഷേ അത് ഒരു ഓസിലേറ്റർ ആയിരിക്കും ശരിയാണ് ഇത് നിർമ്മിക്കാനുള്ള ഓസിലേറ്റർ ആയിരിക്കും സിഗ്നൽ മനസിലാക്കാനോ ക്രമീകരിക്കാനോ ആംപ്ലിഫയർ സ്ഥിരത ശരിയാണ് ഞങ്ങൾ ഒരു സർക്യൂട്ടിലേക്കുള്ള ഫീഡ്ബാക്ക് നെഗറ്റീവ് പ്രയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് നേട്ടം മാറ്റാൻ കഴിയൂ നമുക്ക് നേട്ടത്തിനൊപ്പം കളിക്കാൻ കഴിയും കൂടാതെ വിപരീതമല്ലാത്ത ആംപ്ലിഫയറായി മാറുന്നു അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫീൽഡ് ഞങ്ങൾക്ക് ആംപ്ലിഫയർ സൂചന നൽകുന്നു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ആന്ദോളനം നൽകുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലോസ് ലൂപ്പ് ആംപ്ലിഫയർ ഉണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനാൽ അതുകൊണ്ടാണ് നമുക്ക് കൃത്യത ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് പരിമിതവും എന്നാൽ കൃത്യമായ ക്ലോസ് ലൂപ്പ് നേട്ടവും ഉണ്ടാകും അതിനാൽ ഇവയാണ് ഞങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുറിപ്പുകൾ വേഗത്തിൽ നോക്കുക അല്ലെങ്കിൽ പ്രഭാഷണ കുറിപ്പുകൾ നോക്കുക ഇപ്പോൾ ഇത് ഞങ്ങളുടെ സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അത് നമുക്ക് ആവർത്തിച്ചുള്ളതാണ് ശരിയാണ് നമുക്ക് എങ്ങനെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ എടുക്കാം ഈ റെസിസ്റ്ററുകളുടെ നിഷ്ക്രിയ ഘടകങ്ങൾ എടുക്കുക നമുക്ക് എങ്ങനെ കൃത്യമായി ബ്രെഡ്ബോർഡിൽ സർക്യൂട്ട് സ്ഥാപിക്കാം എങ്ങനെ കഴിയും സർക്യൂട്ട് പരിശോധിക്കുക അതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട യഥാർത്ഥ കാര്യം നിങ്ങൾ കാണുകയാണെങ്കിൽ അടുത്ത സ്ലൈഡ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇതാണ് പരീക്ഷണം അല്ലേ അതിനാൽ എങ്ങനെ പ്രവർത്തിക്കാം അല്ലെങ്കിൽ വിപരീത ആംപ്ലിഫയറിന്റെ നേട്ടം എങ്ങനെ കണക്കാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് R1 ഉണ്ട് ഇത് 1 കിലോ ഓമിന് തുല്യമാണ് ശരിയാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ R f 10കിലോ ഓം ന് തുല്യമാണ് ഈ പ്രത്യേക ആംപ്ലിഫയറിന്റെ നേട്ടം എന്തായിരിക്കും അതിനാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സർക്യൂട്ട് എന്ന് മനസിലാക്കുക നിങ്ങൾ സൂക്ഷ്മമായി കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സർക്യൂട്ട് എന്താണ് ദി ഇൻപുട്ട് സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽ ടെർമിനൽ എന്നതാണ് സർക്യൂട്ട് അതായത് ഇത് ഒരു വിപരീത ആംപ്ലിഫയറാണ് അടുത്തതായി നമ്മൾ കാണേണ്ടത് Rin മൂല്യം എന്താണ് Rf ന്റെ മൂല്യം എന്താണ് ഇപ്പോൾ വിപരീതത്തിനായി V out ട്ടിന്റെ സൂത്രവാക്യം എന്താണ് മൂല്യം എന്താണെന്ന് ഞങ്ങൾക്ക് ഇതിനകം അറിയാംആംപ്ലിഫയർ Vout എന്നത് ഫീഡ്ബാക്ക് റെസിസ്റ്റർ Rf ൻറെ മൈനസ് മാത്രമാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് കൊണ്ട് ഹരിക്കുക Rin Vin അല്ലേ ഈ സൂത്രവാക്യം നമുക്കറിയാമെന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതിനാൽ ആദ്യം ചിത്രം കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ടിനെ ബന്ധിപ്പിക്കുന്നു ഇത് ഞങ്ങൾ കണക്റ്റുചെയ്യുന്ന കണക്കാണ് ശരിയാണ് അടുത്തതായി ഒരു വോൾട്ട് പീക്ക് സൈൻ വേവ് ഒരു കിലോഹെർട്സ് മുതൽ V1 വരെ ഇവിടെ നമ്മൾ ഒരു സൈൻ വേവ് പ്രയോഗിക്കണം പീക്ക് മുതൽ പീക്ക് ടു പീക്ക് ഏത് വോൾട്ട് 1 വോൾട്ട് അതിനാൽ അത് എളുപ്പമാകും മനസ്സിലാക്കുക ശരിയാണ് ഞങ്ങൾ രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത് ശരിയാണോ നമ്മൾ കണ്ടതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സൈൻ വേവ് ശരി പീക്ക് ടു പീക്ക് ഒരു വോൾട്ട് ഒരു കിലോഹെർട്സ് ഒരു ആവൃത്തിയാണ് ശരി കൊള്ളാം ഇപ്പോൾ അടുത്തത് എന്താണ് ഔട്ടപുട്ട് നിരീക്ഷിക്കുക Vout ഔട്ട്പുട്ട് നിങ്ങൾ നിരീക്ഷിക്കണം ചുവടെയുള്ള പട്ടികയിലെ പീക്ക് ടു പീക്ക് മൂല്യം നോക്കുക അതിനാൽ എന്താണ് നൽകിയിരിക്കുന്നത് തന്നിരിക്കുന്ന പട്ടിക Vin Vout ആണ് ഈ 2 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ എന്താണ് നേട്ടം നേട്ടം Vout Vin അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് Vout ആണ് ഇത് Vout നുള്ള സൂത്രവാക്യമാണ് അവിടെ നിന്ന് നമുക്ക് എങ്ങനെ നേട്ടം കണ്ടെത്താനാകും അതിനാൽ നേരത്തെ ഞാൻ Vout നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ Vout-RfRinVin GainVoutVin അപ്പോൾ എന്താണ് നേട്ടം യഥാർത്ഥ നേട്ടം എന്താണ് അതാണ് പരീക്ഷണാത്മക നേട്ടവും സൈദ്ധാന്തിക നേട്ടവും നമുക്ക് രണ്ട് കാര്യങ്ങളും അളക്കാൻ കഴിയും നമുക്ക് ഈ പരീക്ഷണം നടത്താം ഇന്ന് മറ്റൊരു കാര്യം ഉയർന്നതും താഴ്ന്നതുമായ ആംപ്ലിറ്റ്യൂഡുകൾക്കായുള്ള പരീക്ഷണം ആവർത്തിക്കുകയും നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് അതിനാൽ ഞങ്ങൾ ആംപ്ലിറ്റ്യൂഡ് മാറ്റും സിഗ്നലിന്റെ വ്യാപ്തി മാറ്റും നേട്ടത്തിലെ മാറ്റം എന്താണെന്ന് ഞങ്ങൾ കാണും ശരി പട്ടികയിൽ കാണുന്ന നേട്ടം കണക്കാക്കി സൈദ്ധാന്തിക നേട്ടവുമായി താരതമ്യം ചെയ്യുക അതിനാൽ ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോന്നായി ആരംഭിക്കാം ആദ്യം നമ്മൾ ഒരു ബ്രെഡ്ബോർഡ് എടുക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഞങ്ങൾ സർക്യൂട്ട് ബന്ധിപ്പിക്കും ശരിയാണ് അതിനാൽ ഈ പ്രത്യേക കോഴ്സിനായി ഇന്ന് ഞാൻ എന്റെ മറ്റൊരു ടീച്ചിംഗ് അസിസ്റ്റന്റിനോട് അഭ്യർത്ഥിക്കും കൂടാതെ ഞങ്ങൾക്ക് എങ്ങനെ ഈ പരീക്ഷണം നടത്താമെന്ന് അദ്ദേഹം നിങ്ങളെ കാണിക്കും അതിനാൽ സുമൻ ചാറ്റർജി ഒരു അദ്ധ്യാപന സഹായം സുമൻ ദയവായി നിങ്ങൾക്ക് വരാമോ അദ്ദേഹം സുമൻ ചാറ്റർജിയാണ് അദ്ദേഹം ഇന്നത്തെ പരീക്ഷണങ്ങൾ നടത്തും ശരിയല്ലേ അതിനാൽ ആദ്യം നമ്മൾ വിപരീത ആംപ്ലിഫയർ ഉപയോഗിച്ച് ആരംഭിക്കും അതിനാൽ സുമന് ഞങ്ങൾക്ക് പിസിബി ഉണ്ടോ ബ്രെഡ്ബോർഡ് തയ്യാറാണ് ശരി അതിനാൽ നിങ്ങൾക്ക് ഇത്ബന്ധിപ്പിക്കാൻ കഴിയുമോ ഇത് വിപരീത ആംപ്ലിഫയർ ശരി അതിനർത്ഥം ഞങ്ങളുടെ സ്ക്രീനിലെ സർക്യൂട്ട് എന്താണെന്ന് നിങ്ങൾ വീണ്ടും ഓർക്കുന്നുവെങ്കിൽ അത് ഒരു ഓപ് ആം ഉണ്ട് 2 ഫീഡ്ബാക്ക് ഉണ്ട് ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററും ഒരു ഇൻപുട്ടും റെസിസ്റ്റർ ഉണ്ട് ശരി ഇപ്പോൾ നമുക്ക് വീണ്ടും എന്റെ കൈയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അതെ അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രവർത്തന ആംപ്ലിഫയർ ഉണ്ട് ശരി എന്നിട്ട് നമുക്ക് 2 റെസിസ്റ്ററുകളായ Rin Rf എന്നിവ കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ സർക്യൂട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു പിന്നെ അടുത്തത് എന്താണ് പ്രവർത്തന ആംപ്ലിഫയറിലേക്ക് ഞങ്ങൾ 15 15 പ്രയോഗിക്കണം ശരിയാണ് ഇത് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇൻവെർട്ടിംഗിലേക്ക് ഇൻപുട്ട് സിഗ്നൽ ഞങ്ങൾ പ്രയോഗിക്കും ആംപ്ലിഫയർ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ക്ഷമിക്കണം ഞങ്ങൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കുള്ള ഇൻപുട്ട് സിഗ്നൽ വിപരീതമല്ലാത്ത ടെർമിനൽ ആയിരിക്കും അടിസ്ഥാനം എന്തുകൊണ്ട് കാരണം ഇത് വിപരീത ആംപ്ലിഫയർ ആണ് ശരിയല്ലേ അതിനാൽ നിങ്ങൾ എങ്ങനെയെന്ന് അത് ചെയ്യാൻ കഴിയും അതിനാൽ ഞാനിത് ഇവിടെ സ്ഥാപിക്കുന്നു അല്ലേ ഇപ്പോൾ ഈ ഡിസി വൈദ്യുതി വിതരണം ഡിസി വൈദ്യുതി വിതരണം 15 15 അല്ലേ ഇവിടെ നമുക്ക് പ്ലസ് 15 മൈനസ് 15 ഉണ്ട് അതിനാൽ ആദ്യം നമുക്ക് ഇവിടെ കണക്റ്റുചെയ്യാം തുടർന്ന് നമുക്ക് ഡിസി പവർ സപ്ലൈ ആദ്യം ഞങ്ങൾക്ക് കണക്റ്റുചെയ്യാം തുടർന്ന് നിങ്ങൾ കൊടുത്താൽ മതി ശരി അതിനാൽ എന്താണ് op amp ഉപയോഗിച്ച് വിപരീത ആംപ്ലിഫയർഇൽ ബയസ് വോൾട്ടേജ് പ്ലസ് 15 മൈനസ് 15 എന്നിവയുമായി ബന്ധിപ്പിക്കുകയാണ് ശരിയല്ലേ ഞങ്ങൾ ഇതിനകം തന്നെ ഗ്രൌണ്ട് ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് ഡിസി വൈദ്യുതി വിതരണം ആരംഭിക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾ വോൾട്ടേജുകൾ ഇവ പ്രത്യേകമായി കാണേണ്ടതില്ല ശരി പരീക്ഷണ വിഭാഗത്തിലെ ആദ്യ മൊഡ്യൂളിൽ ഇത് കേന്ദ്രീകരിക്കരുത് ഈ പ്രത്യേക വൈദ്യുതി വിതരണത്തിന് പ്ലസ് 15 മൈനസ് 15 ഇവിടെ ചുവപ്പാണെന്ന് ഞാൻ കണ്ടു കറുപ്പും പച്ചയും ശരി ഇവിടെ നിന്ന് നമുക്ക് പ്ലസ് 15 മൈനസ് 15 ലഭിക്കും ശരി അതിനാൽ ആ പ്ലസ് 15 ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് മൈനസ് 15 നേരിട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വിപരീത ഇൻപുട്ടിലെ സിഗ്നൽ പ്രവർത്തന ആംപ്ലിഫയറിന്റെ വിപരീത ഇൻപുട്ട് എന്തായിരുന്നു സിംഗിൾ അതിനാൽ നിങ്ങൾ ഫ്രീക്വൻസി ജനറേറ്റർ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ കാണും ഞങ്ങൾ ഒരു കിലോഹെർട്സ് ആവൃത്തി പ്രയോഗിക്കുന്നു അല്ലേ ഇവിടെ ഞങ്ങൾ ഒരു കിലോഹെർട്സ് ആവൃത്തി പ്രയോഗിക്കുന്നു എന്താണ് വോൾട്ടേജ് ഞങ്ങൾ സംസാരിക്കുന്നു പീക്ക് ടു പീക്ക് വോൾട്ടേജ് അതിനാൽ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്താണെന്ന് നിങ്ങൾ കാണുന്നു വോൾട്ടേജ് ഒരു വോൾട്ട് ആണ് ശരിയാണ് ഒരു വോൾട്ട് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഈ സിഗ്നൽ ഞങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട് വിപരീത ടെർമിനൽ അതിനാൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ പ്രോബ് നിങ്ങൾ കാണുന്നു ഈ പ്രോബ്നോക്കൂ ശരിയാണ് അതിനാൽ ഒന്ന് നിങ്ങളുടെ സിംഗിൾ ആണ് രണ്ടാമത്തേത് നിങ്ങളുടെ ഗ്രൌണ്ടാണ് അതിനാൽ അവൻ സിഗ്നൽ പ്രയോഗിക്കുന്നു കറുപ്പ് 1 ഉള്ള ഈഗ്രൌണ്ടിന് നിങ്ങൾ സർക്യൂട്ട് ഗ്രൌണ്ട് മായി ബന്ധിപ്പിക്കും അത് ബ്രെഡ്ബോർഡിലെ പിസിയിലാണ് ശരി അതിനാൽ വിപരീത ആംപ്ലിഫയർന് സിഗ്നൽ നൽകുക അതിനാൽ അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത് അവൻ ഒരു ഇൻപുട്ട് സിഗ്നൽ നൽകുന്നു അല്ലേ ഒരു പ്രവർത്തന ആംപ്ലിഫയറിന്റെ വിപരീത ടെർമിനൽലേക്ക് ശരി അതിനാൽ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ലളിതമായ പരീക്ഷണം അതുകൊണ്ടാണ് ഇത് അടിസ്ഥാന ഓപ് ആം സർക്യൂട്ടുകളാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ വിപരീത ടെർമിനലിലേക്ക് സിഗ്നലിനെ ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്ന് എടുക്കാം നീളമുള്ള വയർ അതിനാൽ ഇത് എളുപ്പത്തിൽ എടുക്കാം ശരി ബന്ധിപ്പിക്കുക ശരി ഇപ്പോൾ പ്രവർത്തന ആംപ്ലിഫയറിന്റെ വിപരീത ടെർമിനലിലേക്ക് ഇൻപുട്ട് നൽകി ഇപ്പോൾ ഞങ്ങൾക്ക് ഔട്ട്പുട്ട് പരിശോധിക്കുന്നതിന് ഞങ്ങൾ ഔട്ട്പുട്ട് പരിശോധിക്കണം അതാണ് സ്ക്രീനിൽ നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കില് നിങ്ങൾ വീണ്ടും സ്ക്രീൻ കാണുന്നു ശരിയാണ് പട്ടിക എന്തായിരുന്നു ഞങ്ങൾക്ക് ഇൻപുട്ട് ഉണ്ടെന്നതാണ് പട്ടിക വോൾട്ടേജ് ഞങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് ഞങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു നേട്ടമുണ്ട് ശരിയാണോ ഞങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് ഞങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട് ഞങ്ങൾക്ക് നേട്ടമുണ്ട് അതിനർത്ഥം ഞങ്ങൾ ഇതിനകം ഈ ഇൻപുട്ട് സിഗ്നൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ ഇൻപുട്ട് സിഗ്നൽ നൽകി വിപരീത ടെർമിനലിന് അതിനാൽ ഫംഗ്ഷൻ ജനറേറ്ററിൽ എന്താണ് കണ്ടത് പീക്ക് ടു പീക്ക് വോൾട്ടേജ് പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഒരു വോൾട്ട് ആയിരുന്നു എന്തായിരുന്നു ആവൃത്തി ആവൃത്തി ഒരു കിലോഹെർട്സ് ആയിരുന്നു ശരിയല്ലേ ഇപ്പോൾ ഞങ്ങൾ എന്താണ് പരിശോധിക്കേണ്ടത് ഞങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് പരിശോധിക്കണം അല്ലേ അതിനാൽ ഞങ്ങൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടുമായി ഓസിലോസ്കോപ്പിനെ ബന്ധിപ്പിക്കണം അതിനാൽ ഞങ്ങൾക്ക്ഔട്ട്പുട്ട് സിഗ്നൽ കാണാൻ കഴിയും ശരി അതിനാൽ പ്രവർത്തന ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് പരിശോധിക്കുന്നതിനാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനാൽ അവൻ എന്താണ് ചെയ്തത് നിങ്ങൾ അങ്ങേയറ്റം നോക്കുകയാണെങ്കിൽ അവനത് സങ്കീർണ്ണമാണ് പക്ഷേ ഇത് സങ്കീർണ്ണമല്ല അതിനാൽ ഞങ്ങൾ ഇവിടെ വലതുവശത്തുള്ള ഫ്രീക്വൻസി ജനറേറ്ററിനെ ബന്ധിപ്പിച്ചു ഞങ്ങൾ op amp ന് സിഗ്നൽ നൽകി കൂടാതെ ഞങ്ങൾ ഓസിലോസ്കോപ്പ് ഔട്ട്പുട്ട് പരിശോധിക്കുകയാണ് പ്രോബ്കൾ കാരണം ഇത് വളരെ ലളിതമാണെന്ന് തോന്നുന്നു ഒന്ന് ഫ്രീക്വൻസി ജനറേറ്ററിൽ നിന്നുള്ള ചുവന്ന വയർ അതാണ് വിപരീത കറുപ്പിലേക്കുള്ള സിഗ്നൽ ഔട്ട്പുട്ട് ഒരു സിഗ്നലിൽ നിന്ന് ഗ്രൌണ്ടും ആയി ഓസിലോസ്കോപ്പ് ബന്ധിപ്പിച്ചിരിക്കുന് ഇപ്പോൾ ഇൻപുട്ട് സിഗ്നൽ പ്രയോഗിക്കുമ്പോൾ ഒരു വോൾട്ട് പീക്ക് ആണെന്ന് നിങ്ങൾ ശരിക്കും ശരി നമുക്ക് ശരിയായി കാണേണ്ട ഔട്ട്പുട്ട് എന്താണ് ഒരു കിലോഹെർട്സ് അതിനാൽനമ്മൾ ഇവിടെ ഓസിലോസ്കോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഓസിലോസ്കോപ്പിൽ നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ് നിങ്ങൾക്ക് ഓസിലോസ്കോപ്പ് ഫോക്കസ് ചെയ്യാൻ കഴിയുമോ അതെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് അതിനാൽ ഔട്ട്പുട്ട് എന്താണ് അവന്റെ വിരൽ അങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് കാണാനാകും അല്ലേ അതിനാൽ ഈ നീല വര നിങ്ങളുടെ ഔട്ട്പുട്ടാണ് മഞ്ഞ വരയാണ് നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ എന്താണ് കാണുന്നത് എന്ത് കാണാം ഇൻപുട്ട് സിഗ്നലിലേക്ക് 180 ഡിഗ്രി ഘട്ടം ഷിഫ്റ്റ് ആണെന്ന് നിങ്ങൾ കാണുന്നു അല്ലേ അതിനാൽ ഈ മഞ്ഞ വര കാണുമ്പോൾ നീല വര കാണുമ്പോൾ ഇവ 180o ഘട്ടത്തിനു പുറത്താണ് ഇത് ശരിയാണ് അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 10 വോൾട്ട് ആണ് ഇൻപുട്ട് വോൾട്ടേജ് എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് ഒരു വോൾട്ട് മാണ് അതിനർത്ഥം ഞങ്ങൾ സിഗ്നൽ വർദ്ധിപ്പിച്ചു അല്ലേ ഔട്ട്പുട്ടിൽ ഞങ്ങൾക്ക് 10 വോൾട്ട് ലഭിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 10 വോൾട്ട് ലഭിച്ചത് അത് വ്യത്യസ്ത കേസാണ് ഞങ്ങൾ കാണും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് മടങ്ങുകയാണെങ്കിൽ എനിക്ക് അറിയാം ഞാൻ ഞാൻ വളരെയധികം വോൾട്ടേജ് ഇൻപുട്ട് സിഗ്നൽപ്രയോഗിച്ചു 1 വോൾട്ട് ഔട്ട്പുട്ട് സിഗ്നൽ എന്തായിരുന്നു 10 വോൾട്ട് ശരിയല്ലേ അതിനാൽ എന്താണ് VoutV in 10 by 1 അതായത് 10 അതിനാൽ ലളിതമായി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ശരിയല്ലേ എന്താണ് സൈദ്ധാന്തിക നേട്ടം സൈദ്ധാന്തിക നേട്ടം ഒരേ കാര്യമാണ് 10 മുതൽ 1 വരെ അത് വീണ്ടും 10 ആണ് അതിനാൽ നിങ്ങൾക്കറിയാമോ ഞങ്ങൾ പരീക്ഷണ നേട്ടം കണക്കാക്കുമ്പോൾ സൈദ്ധാന്തിക നേട്ടം വലിയ വ്യത്യാസമില്ല ഈ പ്രത്യേക കേസിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മാറ്റിയാൽ എന്ത് സംഭവിക്കും ശരിയാണ് അതായിരുന്നു രണ്ടാമത്തെ കേസ് അത് നിങ്ങൾ ഇപ്പോൾ കാണാമായിരുന്നു അല്ലേ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഔട്ട്പുട്ട് ആയിരുന്നു ഇൻപുട്ടിനെ അപേക്ഷിച്ച് സിഗ്നൽ കൂടുതലാണ് അതായത് ഔട്ടുംട്ട്പുട്ടിലെ വോൾട്ടേജ് 10 ഇൻപുട്ടിൽ വോൾട്ടേജ് 1 ആണ് കാരണം RfRin 101 അല്ലാതെ മറ്റൊന്നുമല്ല അത് 10 ന് തുല്യമാണ് അതിനർത്ഥം അത് വർദ്ധിപ്പിക്കും ഇൻപുട്ട് സിഗ്നലിന്റെ 10 മടങ്ങ് ഇൻപുട്ട് സിഗ്നൽ 1 വോൾട്ട് ഔട്ടട്ട്പുട്ട് സിഗ്നൽ 10 വോൾട്ട് ആകും ശരി ഇത് ഞങ്ങൾ കണ്ടു ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം അതായത് ഞങ്ങൾ ഉയർന്നതോ താഴ്ന്നതോ ആയ വ്യാപ്തി പ്രയോഗിക്കും നിരീക്ഷണം ശ്രദ്ധിക്കുക അതിനാൽ നിങ്ങൾക്ക് ജനറേറ്റർ ആവൃത്തിയിൽ വീണ്ടും ഫോക്കസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ആവൃത്തി അതേപോലെ തന്നെ ഉണ്ട് ഞങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് മാറ്റാൻ ശ്രമിക്കുകയാണ് ഇൻപുട്ട് വോൾട്ടേജ് മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോൾ എന്താണ് 2 വോൾട്ട് ശരി ഞങ്ങൾ 2 വോൾട്ട് പ്രയോഗിച്ചു ശരിയല്ലേ ഇപ്പോൾ ഞങ്ങൾ 2 വോൾട്ട് പ്രയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം 1 വോൾട്ടിന്റെ പകരം ഞങ്ങൾ 2 വോൾട്ട് പ്രയോഗിച്ചപ്പോൾ ഔട്ട്പുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ശരി അതിനാൽ നിങ്ങൾ ഓസിലോസ്കോപ്പ് കണ്ടാൽ അത് സ്ട്രിപ്പ് ആണ് അതാണ് ഞങ്ങൾ 2 വോൾട്ട് പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ചോദ്യം അത് എത്ര തവണ വർദ്ധിപ്പിച്ചു 2 എന്താണ് നേട്ടമെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് ശരിയായ രീതിയിൽ RfR ആണ് അതിനാൽ 10 ബൈ ഓരോന്നും 10 10 ആണ് നിങ്ങളുടെ നേട്ടം എത്ര വോൾട്ടേജ് നിങ്ങൾ 2 വോൾട്ട് പ്രയോഗിക്കുന്നു 2 മുതൽ 10 വരെ 20 വോൾട്ട് ആയിരിക്കും അതിനാൽ 20 വോൾട്ട് സിഗ്നൽ ഉള്ള ഒരു സിഗ്നൽ നമ്മൾ കാണണം അത് ശരിയാണ് മഞ്ഞ നീലനിറം അത് ഘട്ടത്തിന് പുറത്താണ് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ക്ലിപ്പ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ക്ലിപ്പ് ചെയ്തിരിക്കുന്നത് ശരിയാണ് കാരണം ബയാസ് വോൾട്ടേജിലെ സപ്ലൈ വോൾട്ടേജ് പ്ലസ് മൈനസ് 15 വോൾട്ട്ആണ് ശരിയാണ് അതിനാൽ ഔട്ട്പുട്ട് സിഗ്നലിൽ 20 വോൾട്ടുകളുടെ മതിയായ വർദ്ധനവ് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല ശരി അതാണ് കാരണം ഇപ്പോൾ ഞങ്ങൾ ഇൻപുട്ട് സിഗ്നൽ കുറച്ചാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ഇതുമായി പോകരുത് അത് 20 വോൾട്ട് പോലെ കാണുന്നില്ല അത് 15 വോൾട്ട് പോലെ കാണുന്നില്ല ശരിയാണ് കാരണം ഞങ്ങൾക്ക് ഓസിലോസ്കോപ്പ് ക്രമീകരിച്ചു അതായത് ഈ പീക്ക് മുതൽ പീക്ക് വരെ 15 നീല ഒന്ന് 15 ആണ് ഞാനിവിടെ ഇടുകയാണെങ്കിൽ ശരിയാണ് നീല ഒന്ന് 15 ആണ് ഇത് അങ്ങനെ പീക്ക് ടു പീക്ക് 20 ആണ് ശരിയല്ലേ പീക്ക് ടു പീക്ക് 20 ആണ് എന്നാൽ ഇത് ക്ലിപ്പ് ചെയ്തിരിക്കുന്നു ഇത് ഇവിടെ ക്ലിപ്പ് ചെയ്തിരിക്കുന്നു മഞ്ഞ ഒന്ന് പീക്ക് ടു പീക്ക് 1 വോൾട്ട് ആണ് അതുകൊണ്ടാണ് 20 വോൾട്ട് എന്ന് ഇത് പ്രതിനിധീകരിക്കുന്നില്ല ഇത് വലിയ തരംഗരൂപമായി കാണപ്പെടുന്നു അല്ലെങ്കിൽ ചെറുത് രണ്ടും തുല്യമായി കാണപ്പെടുന്ന ഒരു വോൾട്ട് എന്നാൽ ഞങ്ങൾ ക്രമീകരിച്ചു ഓസിലോസ്കോപ്പ് വഴി നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതിനാൽ സിഗ്നൽ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഉയർന്നതായി കാണുന്നില്ല നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത ഓസിലോസ്കോപ്പിലെ മാനദണ്ഡം മാറ്റുന്നതിലൂടെ നമുക്ക് അത് മാറ്റാൻ കഴിയും ഇപ്പോൾ കുറഞ്ഞ വോൾട്ടേജ് പ്രയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാം അതിനാൽ നിങ്ങൾക്ക് വീണ്ടും ആവൃത്തി ജനറേറ്റർൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾ 500 മില്ലിവോൾട്ടുകൾ പ്രയോഗിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ നമ്മൾ എന്ത് സംഭവിക്കും 500 മില്ലിവോൾട്ട് പ്രയോഗിക്കണോ ഇപ്പോൾ അങ്ങനെ നോക്കാം ഞങ്ങൾ 500 മില്ലിവോൾട്ടുകൾ പ്രയോഗിക്കുന്നു അത് നിങ്ങളുടെ സർക്യൂട്ടിലേക്ക് പോകുന്നു ഇവിടെ തന്നെ നിങ്ങളുടെ ബ്രെഡ്ബോർഡ് അതിനാൽ സിഗ്നൽ നിങ്ങള ബ്രെഡ്ബോർഡ്മായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് നിങ്ങളുടെ വിപരീത ആംപ്ലിഫയറാണ് വിപരീത ആംപ്ലിഫയർ t ഔട്ട്പുട്ട് തിരികെ ഓസിലോസ്കോപ്പ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ നിന്ന് ഓസിലോസ്കോപ്പിലേക്ക് അതിനാൽ ഇപ്പോൾ നമ്മൾ ഓസിലോസ്കോപ്പിലേക്ക് എന്താണ് നോക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്ലെ ചില മാറ്റങ്ങൾ ഞങ്ങൾ നോക്കുന്നു പുതിയ മൂല്യം എന്താണ് നിങ്ങൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു ഘട്ടം ഷിഫ്റ്റ് ഉണ്ട് ഒരു വോൾട്ടിൽ നിന്ന് ഇത് 5 വോൾട്ട് ആണ് പീക്ക് ടു പീക്ക് 10 ആണ് പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വോൾട്ടേജ് ഔട്ട്പുട്ടിൽ 5 വോൾട്ടുകളല്ലാതെ മറ്റൊന്നുമില്ല ശരി അതിനാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 520 മില്ലിവോൾട്ടുകൾ പറയാം അതിനാൽ ഇൻപുട്ടിൽ 500 മില്ലിവോൾട്ടുകൾ പ്രയോഗിക്കുന്നു ക്ഷമിക്കണം ഇൻപുട്ടിൽ 500 മില്ലിവോൾട്ടുകൾഔട്ട്പുട്ട് എന്താണ് നമ്മൾ കാണണം അല്ലേ അതിനാൽ ഞങ്ങൾ ഇതുവരെ കണ്ടത് നിങ്ങൾക്ക് ഇൻപുട്ട് സിഗ്നൽ മാറ്റാൻ കഴിയും എന്നതാണ് അതായത് ഔട്ട്പുട്ട് സിഗ്നലിലെ മാറ്റം നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു കാര്യം ഘട്ടം ഷിഫ്റ്റ് ആണോ ഘട്ടം ഷിഫ്റ്റ് ശരിയാണോ മഞ്ഞയും നീലയും ഇവ ഘട്ടത്ന്നു പുറത്താണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും ഇൻപുട്ട് സിഗ്നൽ മാറ്റാൻ കഴിയും നമുക്ക് എപ്പോഴും എന്തും വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷേ ബയാസ് വോൾട്ടേജായി ഞാൻ നൽകിയതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അത് നിങ്ങളുടെ പ്ലസ് മൈനസ് 15 അതിനാൽ ഇത് വളരെ എളുപ്പമാണ് അല്ലേ അതിനാൽ ഞാൻ ഈ മൂല്യം ഇടുകയാണെങ്കിൽ എന്റെ സ്ക്രീനിൽ പട്ടികയായ നിരവധി കാര്യങ്ങൾ എനിക്ക് കണക്കാക്കാൻ കഴിയും ശരി എനിക്ക് Vin കാണാൻ കഴിയും എനിക്ക് Vout കാണാൻ കഴിയും എനിക്ക് VoutVin കാണാൻ കഴിയും എനിക്ക് സൈദ്ധാന്തിക നേട്ടം കാണാൻ കഴിയും എനിക്ക് ആംപ്ലിറ്റ്യൂഡ് മാറ്റാൻ കഴിയും എനിക്ക് സിഗ്നലിലെ മാറ്റം കാണാൻ കഴിയും വളരെ എളുപ്പമുള്ള പരീക്ഷണം വളരെ അടിസ്ഥാനപരമായ പരീക്ഷണം പക്ഷേ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഈ പ്രത്യേകതയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം പ്ലസ് മൈനസ് 15 പ്രയോഗിച്ചാൽ ശരിയാണ് പ്രവർത്തന ആംപ്ലിഫയർന്റെ വീണ്ടും എന്താണ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു പ്രവർത്തന ആംപ്ലിഫയറിന്റെ നേട്ടം പരിധി എന്തായിരുന്നു അതിനർത്ഥം ഒരു ചോദ്യം വന്നാൽ നേട്ടം അനന്തമാണെങ്കിൽ നേട്ടമുണ്ടെങ്കിൽ അനന്തമായി ഞാൻ ഇൻപുട്ടിൽ 1 വോൾട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് അനന്തമായ വോൾട്ടേജുകളായിരിക്കണം അതിനാൽ അതിനർത്ഥം ഞാൻ ഇപ്പോൾ IIScയിൽ ആയതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരിയല്ലേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കൂടാതെ എനിക്ക് മുഴുവൻ IIScയിലും ശക്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ എനിക്ക് ഒരു op amp ഒന്ന് ഉപയോഗിക്കാം സിംഗിൾ ഒപ്പ് ആംപ് ഞാൻ കാണുന്നു അവന്റെ നേട്ടം അനന്തമായതിനാൽ അതായത് ഒരു വോൾട്ട് ഇൻപുട്ട് പ്രയോഗിക്കുന്നു എനിക്ക് അനന്തമായ വോൾട്ടേജ് നേടാൻ കഴിയും കൂടാതെ IISc മുഴുവനും ഒരൊറ്റ പ്രവർത്തന ആംപ്ലിഫയർ ഉപയോഗിച്ച് എനിക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും അതു ശരിയാണോ നമ്മൾ പരീക്ഷണത്തിൽ തന്നെ കണ്ടത് അനന്തമായ നേട്ടം ശരി ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു നേട്ടമുണ്ട് അത് ഏകദേശം 10 ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നമുക്ക് എല്ലായ്പ്പോഴും ഇത് വർദ്ധിപ്പിക്കാൻ കഴിയും അനന്തമായ നേട്ടമുണ്ടെങ്കിൽപ്പോലും ഔട്ട്പുട്ടിന് അനന്തമായ മൂല്യത്തിലേക്ക് എത്താൻ കഴിയില്ല പക്ഷേ ഇത് ബയാസ് വോൾട്ടേജ് വഴി പരിമിതമാണ് അതായത് ഒരു ഒപ് ആമ്പിന് മുഴുവൻ പവർ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ആവശ്യമായ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല അല്ലേ അതിനാൽ ഇത് എല്ലായ്പ്പോഴും ഓർക്കുക അനന്തമായ നേട്ടം എന്നത് നമുക്ക് നേടാനാകുമെന്നാണ് ഇത് നിങ്ങൾ എത്രമാത്രം പ്രവർത്തന ആംപ്ലിഫയർ വിതരണം ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനർത്ഥം ഇവിടെ നമുക്ക് പരമാവധി 13 5 അല്ലെങ്കിൽ അടുത്തടുക്കാൻ കഴിയും 15 മുതൽ 15 വരെ ആ പരീക്ഷണം ഞങ്ങൾ കാണും എന്താണ് പ്രവർത്തന ആംപ്ലിഫയർ പ്രവർത്തിക്കാൻ കഴിയുന്ന ശ്രേണി എന്താണ് ശരി അതിനാൽ ഞങ്ങൾ പറയുമ്പോൾ അനന്തമായ നേട്ടം അതിനർത്ഥം നമുക്ക് അനന്തമായ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട് ശരിയല്ലേ അതിനാൽ ഇത് വളരെ എളുപ്പമാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ പരീക്ഷണം കുറച്ച് ഭാഗങ്ങളായി വിഭജിക്കും അതിനാൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇടവേള എടുക്കാം ഇപ്പോൾ നമ്മൾ വിപരീത ആംപ്ലിഫയർ കണ്ടത് പെട്ടെന്ന് ഓർമിക്കാം ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ ഞങ്ങൾ ഇൻപുട്ട് പ്രയോഗിച്ചു ആ ഔട്ട് ടപുട്ടിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഞങ്ങൾ അളക്കുന്നു Vout by Vin ഞങ്ങൾ നേട്ടം അളന്നു ശരിയാണ് വിപരീത ആംപ്ലിഫയറിന്റെ നേട്ടം വിപരീത ആംപ്ലിഫയറിന്റെ സൈദ്ധാന്തിക നേട്ടം ഞങ്ങൾ കണക്കാക്കി ഞങ്ങൾക്ക് അത് ഇതിനകം അറിയാം Vout RfRin Vin നിങ്ങളുടെ വിപരീത ആംപ്ലിഫയറിന്റെ ഫോർമുല അതാണ് തുടർന്ന് ഞങ്ങൾ ഒരു ബ്രെഡ്ബോർഡ് കണ്ടു ഞങ്ങൾ ഇൻപുട്ടിലേക്കുള്ള സിഗ്നൽ വിപരീതദിശയിലാക്കുന്ന കുറച്ച് ഇൻപുട്ടിനെ ഫ്രീക്വൻസി ജനറേറ്ററിനെ ബന്ധിപ്പിച്ചു അതിനാൽ ഔട്ട്പുട്ട് വിപരീതദിശയിലാണെന്ന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിന് പുറത്ത് നമുക്ക് ഓസിലോസ്കോപ്പിൽ കാണാൻ കഴിയും ഇതാണ് ഞങ്ങൾ ചെയ്തതു ഇപ്പോൾ അടുത്ത മൊഡ്യൂളിൽ വിപരീതമല്ലാത്ത ആംപ്ലിഫയർ എങ്ങനെ ശരിയായി പ്രവർത്തിക്കുമന്ന് നോക്കാം അതിനാൽ അടുത്ത മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണും ഇപ്പോൾ നമുക്ക് ഒരു ഇടവേള എടുക്കാംശരി